ഈ പാഠത്തിൽ നാം മറ്റൊരു ചെറിയ തിയറം ആണ് പരിഗണിക്കുക ഇത്തവണ കറന്റ് സോഴ്സ് ആണ് ഉൾപ്പെടുത്തുക ഞാൻ അതിനെ കറന്റ് സോഴ്സ് വിഭജനം എന്ന് വിളിക്കുന്നു അത് എന്തുകൊണ്ടെന്ന് ഉടനെ മനസ്സിലാകും നമുക്ക് ഒരു സർക്യൂട് ഉണ്ടെന്നു പറയാം അത് ഏതു വേണ്ടമെങ്കിലും ആകാം അതിനു ഒരു കറന്റ് സോഴ്സ് ഉണ്ടായാൽ മതി ഞാൻ ഇതിൽ പരിമിതികൾ ഒന്നും കൊടുക്കുന്നതല്ല അത് ലീനിയർ ആകാം അല്ലാതെയും ആകാം എന്ത് തന്നെ ആണെങ്കിലും അതിനു ഒരു ആദർശപരമായ കറന്റ് സോഴ്സ് ഉണ്ട് അതിന്റെ വാല്യൂ എന്നത് I0 ആണ് എന്ന് പറയാം ഇപ്പോൾ വ്യക്തമാകും ഇത് രണ്ടു കറന്റ് സോഴ്സുകൾ സീരീസ് ആയി ബംന്ധിപ്പിച്ചതിനു തുല്യമാണ് പൊതുവെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ രണ്ടു കറന്റ് സോഴ്സുകൾ അവയുടെ വാല്യൂ ഒന്നുതന്നെ അല്ല എങ്കിൽ സീരീസ് ആയി ബന്ധിപ്പിക്കാനാകില്ല അഥവാ അത് ഒന്ന് തന്നെ ആണെങ്കിൽ അത് ഒരു ഒറ്റ കറന്റ് സോഴ്സ് മാത്രം ബന്ധിപ്പിക്കുന്നതിനു തുല്യമാണ് അതിലെ കറന്റ് എന്നത് I0 ആണ് ഇതിന്റെയെല്ലാം അർഥം എന്താണ് ഈ നടുക്കത്തെ നോഡ് നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഇവിടെ നിന്നും പുറത്തേക്കു വരുന്ന കറന്റ് എന്നത് I0 ആണ് ഇങ്ങോട്ടു പോകുന്നതും ഈ I0 ആണ് ഇനി പുറത്തേക്കു പോകുന്ന ഒരു വയർ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കു ഉറപ്പായും പറയാം അത് 0 ആണ് അത് കിർച്ചോഫ്സ് കറന്റ് ലോKirchhoff's current law ഉപയോഗിച്ചാണ് നാം പറയുക എന്തെന്നാൽ ഈ I0 പിന്നെ ഈ I0 എന്നിവ ചേരുമ്പോൾ 0 ആകേണ്ടതാണ് ഇനി ഇതിനെ വോൾടേജ് എന്ത് തന്നെ ആയാലും ആദർശ കറന്റ് സോഴ്സ് എന്നത് സ്ഥിരമായ കറന്റ് തന്നെ നൽകുന്നു എന്ന കാര്യവുമായി യോജിപ്പിക്കുക നമുക്ക് ഇതിനെ മറ്റേതൊരു നോഡുമായി വേണമെങ്കിലും ബന്ധിപ്പിക്കാം ഇവിടെ കുറച്ചു നോഡ് ഉണ്ടെന്നു സാങ്കൽപ്പിക്കാം അത് ഇവിടെ ബന്ധിപ്പിക്കാം എന്തെന്നാൽ ഈ കറന്റ് എന്നത് 0 ആണ് നമുക്കറിയാം ഈ കണക്ഷനുകൾ ഉള്ളതിന് മുമ്പേ തന്നെ ഇവിടെ കറന്റ് 0 ആണ് ഇത് ഒരു 0 കറന്റ് ആണ് ഇവിടെ നൽകുക കിർച്ചോഫ്സ് കറന്റ് ലോKirchhoff's current law വച്ച് പറയാം ഇവിടെ മാറ്റമൊന്നും ഇല്ല ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് സർക്യൂട്ടിൽ ഒരു ആദർശ കറന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ എനിക്കതിനെ ഒരേ വാല്യൂ ഉള്ള രണ്ടു കറന്റ് സോഴ്സ് സീരീസ് ആയി കരുതാം അതിനെ നടുഭാഗം ഏതു നോഡിലേക്കു വേണമെങ്കിലും കണക്ട് ചെയ്യാം എന്തെന്നാൽ അത് കറന്റ് ഇല്ലാത്ത ഭാഗമാണ് അത് സർക്യൂട്ടിൽ മറ്റു ഭാഗങ്ങൾ ഒന്നും മാറ്റം വരുത്തുന്നില്ല വോൾടേജ് എന്ത് തന്നെ ആണെങ്കിലും ആ കറന്റ് സോഴ്സ് എന്നത് കൃത്യമായി പ്രവർത്തിക്കും എന്തെന്നാൽ അത് ആദർശമായ കറന്റ് സോഴ്സ് ആണ് അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും നോഡിൽ കണക്ട് ചെയ്താലും ഇത് തന്നെ ആണ് അവസ്ഥ മാറ്റമൊന്നും ഉണ്ടാകില്ല ഇതിനെ ആണ് കറന്റ് സോഴ്സ് വിഭജനം എന്ന് പറയുക ഒരു ആദർശ കറന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്കു രണ്ടു കറന്റ് സോഴ്സുകൾ സീരീസ് ആയി കണക്ട് ചെയ്തതിനോട് ഉപമിക്കാം അതിന്റെ നടു ഭാഗം സർക്യൂട്ടിൽ എങ്ങോട്ടു വേണമെങ്കിലും കണക്ട് ചെയ്യാം ഇനി ഇതിന്റെ ഉപയോഗം എന്താണ് നമുക്ക് പറയാം നമുക്ക് ഒരു സർക്യൂട് ഉണ്ട് അതിൽ ഒരു നോഡ് നാം റഫറൻസ് നോഡ് ആയി പരിഗണിക്കുന്നു ഇനി ഇതുപോലെ ഒരു കറന്റ് സോഴ്സ് ഉണ്ട് അത് നാം രണ്ടു സോഴ്സ് ആക്കി വിഭജിക്കുന്നു ഇനി ഇതെനിക്ക് ഏതു നോഡിലേക്കു വേണമെങ്കിലും ബന്ധിപ്പിക്കാം ഞാൻ അത് ഈ റഫറൻസ് നോഡിലേക്കു കണക്ട് ചെയ്യുന്നു ഞാൻ ഇത് ഈ സർക്യൂട് ആയി മാറ്റിവരക്കുകയാണെങ്കിൽ I0 എന്ന കറന്റ് സോഴ്സ് റഫറൻസ് നോഡ് ലേക്ക് കണക്ട് ചെയ്യുന്നു ഇതെല്ലാം തന്നെ I0 ആണ് പോയിന്റ് 2 ൽ നിന്ന് നമുക്ക് മറ്റൊരു കറന്റ് സോഴ്സ് ഉണ്ട് അതും ഈ റഫറൻസ് നോഡ് ആയി ബന്ധിപ്പിക്കുന്നു ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിൽ രണ്ടു നോഡുകൾക്കിടയിൽ കറന്റ് സോഴ്സ് ഉണ്ട് അത് രണ്ടും റഫറൻസ് നോഡല്ല ഇവിടെ നമുക്ക് രണ്ടു കറന്റ് സോഴ്സ് ആണ് ഉള്ളത് അവയിൽ ഒരു അറ്റം റഫറൻസ് നോഡിലേക്കു കണക്ട് ചെയ്തിരിക്കുന്നു എന്നാൽ ഇത് ലളിതമായി നമുക്ക് അപഗ്രഥിക്കാനാകും എന്തെന്നാൽ സോഴ്സ് റഫറൻസ് നോഡിലേക്കു ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരു ഉദാഹരണമില്ലാതെ ഇത് നമുക്ക് പറയാനാകുമെന്നു തോന്നുന്നില്ല എന്നിരുന്നാലും മനസിലാക്കുക ഇത് പല സർക്യൂട്ടുകൾ വച്ച് നോക്കിയാൽ അപഗ്രഥിക്കാൻ എളുപ്പമാണ് അപ്പോൾ കറന്റ് സോഴ്സ് വിഭജനം ഉപയോഗപ്രദമാണ് അത് പറയാനായി മാത്രം ഈ ഉദാഹരണം നമുക്ക് എടുക്കാം നോഡൽ അനാലിസിസ് ഞാൻ പറഞ്ഞിട്ട് ഒരുപാടു കാലമായല്ലോ എനിക്കിവിടെ I1 I3 പിന്നെ R11 R12 R22 R23 R33 എന്നിവ ആണുള്ളത് ഇതുപോലുള്ള സർക്യൂട് നാം ചർച്ച ചെയ്തതാണല്ലോ ഈ കറന്റ് സോഴ്സിന്റെ ഒരു അറ്റം പോലും റഫറൻസ് നോഡിലേക്കു കണക്ട് ചെയ്തിട്ടില്ല ഇവിടെയാണ് റഫറൻസ് നോഡ് എന്നത് ഈ പോയിന്റിൽ നമുക്ക് പോസ് ചെയ്യാം എന്നിട്ടു നോഡൽ ഇക്വേഷനുകൾ എഴുതാം ഞാൻ എഴുതുന്നു പിന്നെ നിങ്ങൾക്കു ഇത് എഴുതി താരതമ്യം ചെയ്യാം അത് പ്രാക്ടിസിനു വേണ്ടി ആണ് ഇവിടെ നോഡ് 1 2 പിന്നെ 3 ഉണ്ട് അത് G11 G12 G12 0 G12 G12 G22 G23 G23 0 G23 പിന്നെ G33 G23 V1 V2 V3 നോഡിലേക്കു കടത്തിവിടുന്ന ആകെ കറന്റ് ആണ് അത് I0 I1 ആണ് നോഡ് 2 ലേക്ക് കടത്തി വിടുന്ന ആകെ കറന്റ് എന്നത് 0 ആണ് നോഡ് 3 ൽ അത് I3 I0 ആണ് ഞാൻ ഇവിടെ കറന്റ് സോഴ്സ് വിഭജനം ചെയ്യുന്നു ഇനി ഞാൻ ഇവിടെ കറന്റ് സോഴ്സ് വിഭജനം ചെയ്യാൻ പോകുകയാണ് ഞാൻ ഇത് മായിച്ചു കളഞ്ഞു ഒരേ പോലുള്ള രണ്ടു കറന്റ് സോഴ്സുകൾ കണക്ട് ചെയ്യുന്നു I0 പിന്നെ ഇതും I0 ഈ നടുഭാഗം ഞാൻ റഫറൻസ് നോഡിലേക്കു കണക്ട് ചെയ്യുന്നു ഇത് ഉപയോഗമുണ്ടെന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഇനി അത് നോക്കാം ഈ കറന്റ് സോഴ്സ് എന്നത് ഈ നോഡിനും റഫറൻസ് നോഡിനും ഇടയിൽ ആണ് ബന്ധിപ്പിച്ചത് അതിനാൽ ഇത് ഇവിടെ പാരലൽ ആണ് അപ്പോൾ എനിക്കുണ്ടാകുക I1 I0 ആണ് അത് നോഡ് 3 നും റഫറൻസ് നോഡിനും ഇടയ്ക്കാണ് അത് ഈ I3 യുടെ വിപരീത ദിശയിലാണു ഈ സൈഡിൽ നമുക്ക് I3 I0 ആണുള്ളത് ബാക്കി സർക്യൂട് പഴയതു പോലെ തന്നെ ആണ് ഈ സർക്യൂട്ടിൽ കണ്ടക്ടൻസ് എന്നതിന് മാറ്റമില്ല പഴയതു പോലെ തന്നെ നോഡ് 1 2 3 പിന്നെ റഫറൻസ് നോഡ് ഈ കണ്ടക്ടൻസ് മാട്രിക്സ് ന്റെ ഇടതുവശം മാറ്റമില്ലാതെ തുടരും ഞാൻ ഇത് മുമ്പ് പറഞ്ഞ കേസിൽ നിന്നും കോപ്പി ചെയ്യുന്നതാണ് ആകെ വ്യത്യാസം കറന്റ് സോഴ്സ് ആണ് ഇനി ഇവിടെ 3 കറന്റ് സോഴ്സിന് പകരം 2 ആണ് ഉള്ളത് ഈ വലതു വശത്തുള്ള വെക്ടറിന്റെ ആദ്യ റോ എന്നത് ഈ നോഡിലേക്കു കടത്തിവിടുന്ന ആകെ കറന്റ് ആണ് അത് I1 I0 ആണ് പിന്നെ നോഡ് 2 ൽ അത് 0 ആണ് പിന്നെ നോഡ് 3 ൽ അത് I3 I0 ആണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ആദ്യം ലഭിച്ച അതെ ഇക്വേഷനുകൾ തന്നെ ആണ് ഇവിടെയും ലഭിക്കുക കറന്റ് സോഴ്സ് വിഭജനം നടത്തി നടുവിലെ പോയിന്റ് മറ്റൊരിടത്തേക്ക് കണക്ട് ചെയ്തു സോൾവ് ചെയ്യുന്നതും അതില്ലാതെ നേരെ ചെയ്യുന്നതും ഒരേ ഉത്തരത്തിലേക്കാണ് നയിക്കുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റി ആണ് രണ്ടു നോഡുകൾക്കിടയിലെ കറന്റ് സോഴ്സ് എന്നത് സീരീസ് ആയി കണക്ട് ചെയ്ത 2 കറന്റ് സോഴ്സുകൾക്കു തുല്യമാണ് അത് ഉത്തരത്തിൽ മാറ്റം വരുത്തുന്നില്ല ഇവിടെ ഞാൻ ഇത് റഫറൻസ് നോഡിലേക്കാണ് കണക്ട് ചെയ്തത് പക്ഷെ അത് മറ്റെങ്ങോട്ടു വേണമെങ്കിലും ആകാം നിങ്ങൾ അറിയേണ്ടത് ഇക്വേഷനിൽ മാറ്റമില്ല എന്നതാണ് അപ്പോൾ ഉത്തരത്തിനും മാറ്റമില്ല